ഇത് വരെ നമ്മൾ റെസൊണൻസിന്റെ കുറച്ച് സിദ്ധാന്തങ്ങൾ നോക്കി ഇനി നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം നോക്കാം ഇത് ഒരു ലളിതമായ സീരീസ് RLC സർക്യൂട്ടാണ് R L ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് 320 പിക്കോ ഫാരഡ് ആണ് ഈ ഒരു സമയത്തെ പൊളാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉം ഉം എടുക്കാം അത് പോലെ ഈ വോൾട്ടേജ് 0 85 വോൾട്ടേജാണ് അപ്പോൾ ഇതാണ് RLC സർക്യൂട്ട് അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ Q50 യും f0175 കിലോ ഹേർട്സും ആണെങ്കിൽ റെസൊണൻസിനുള്ള L ന്റെ മൂല്യം നിർണ്ണയിക്കുക കൂടാതെ സർക്യൂട്ട് കറണ്ടും കപ്പാസിറ്ററിലുള്ള വോൾട്ടേജും സർക്യൂട്ടിന്റെ ബാൻഡ്വിഡ്ത്തും കണ്ടെത്തുക അപ്പോൾ ഇതാണ് പ്രോബ്ലം ഇതാണ് ഇവിടുത്തെ സർക്യൂട്ട് ഇവിടെ തന്നിരിക്കുന്നതെല്ലാമാണ് നിർണ്ണയിക്കേണ്ടത് അതിനാൽ നമുക്കറിയാവുന്ന ആദ്യത്തെ കാര്യം f012π √LC എന്നതാണ് f0 ഇവിടെ നൽകിയിട്ടുള്ളത് 175 കിലോ ഹേർട്സ് ആണ് അപ്പോൾ ഇത് 175 10312 π √ C എന്നതാണ് C ഇവിടെ 320 പിക്കോ ഫാരഡ് ആണ് അതായത് 320 1012 L ഇതിൽ നിന്നും നമുക്ക് L2 58 മില്ലി ഹെൻറി എന്ന് ലഭിക്കും ഇനി ഇവിടെ XLLω ആണെന്ന് നമുക്കറിയാം L നമുക്ക് ലഭിച്ചത് 2 58 10 3 H യും × 2 π × f0175 × 103 ഹെർട്സും ആണ് അതിനർത്ഥം XLLω എന്നത് ഇത്ര Ω ആണ് അതിനാൽ ഇത് 2840 Ω ആണ് ക്വാളിറ്റി ഫാക്ടർ Qω0 LR ആയതിനാൽ Rω0 LQ എന്നാണ് അപ്പോൾ ഇവിടെ ഈ മൂല്യങ്ങൾ പകരം ചേർക്കുക നമുക്ക് ലഭിക്കുക R56 ഈ രീതിയിൽ നമുക്ക് L 2 58 മില്ലി ഹെൻറി ആണെന്ന് ലഭിച്ചിട്ടുണ്ട് f0 ഇതാണെന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു തിരുത്തുണ്ട് ഇവിടെ ω0 2π f0 ആണ് ഇതിൽ 2π ചേർക്കാനുണ്ട് ഈ നൽകിയിട്ടുള്ള ഉത്തരം ശരിയാണെന്ന് തോന്നുന്നു അതൊന്ന് പരിശോധിക്കുക അതിനാൽ Q50 എന്നത് നൽകിയിട്ടുണ്ട് അത്പോലെ Rω0 L Q ആണ് ദയവായി ഈ ഉത്തരം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുക ഇനി ഈ R നമുക്ക് കിട്ടിയിട്ടുണ്ട് റെസൊണൻസിലുള്ള സർക്യൂട്ടിന്റെ ഇമ്പിടൻസ് നോക്കുകയാണെങ്കിൽ റെസൊണൻസ് XLXC അതിനാൽ Z R 56 8 Ω ആണ് അതിനാൽ I0VR V ഇവിടെ നൽകിയിട്ടുണ്ട് 0 85 വോൾട്ട് ഹരിക്കണം R അതായത് 14 96 മില്ലി ആംപിയർ മാത്രമല്ല VC I0 ω0 C അതിനർത്ഥം ഇതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും R കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ R I0 ω0 C R എന്ന് ലഭിക്കും അതിനാൽ VC Q V ആകും ഇവിടെ R I0 V എന്നും 1ω0 C R Q എന്നുമാണ് അപ്പോൾ ഇത് Q V എന്നാവും അതിനാൽ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് 50 0 85 V എന്നത് 0 85 വോൾട്ടാണ് അത് പോലെ Q എന്നത് 50 ആണ് അങ്ങനെ ഉത്തരം 42 5 വോൾട്ട് ഇനി ബാൻഡ് വിഡ്ത്ത് എന്നത് ω2 ω1 ആണ് അല്ലെങ്കിൽ അത് റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ f2 f1 ഹെർട്സിൽ ഉള്ളതാണ് നമ്മൾ ഈ Q കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ബാൻഡ്വിഡ്ത്ത് BW f0 Q ഇനി f0 യുടെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഹെർട്സിലായിരിക്കും അതിനാൽ 175103 Q50 3 5 കിലോ ഹെർട്സ് അപ്പോൾ ഇതാണ് ബാൻഡ് വിഡ്ത്ത് ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം ഇത് വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം യഥാർത്ഥത്തിൽ ω0 2π f0 എന്നാണ് ഞാൻ മുമ്പത്തേതിൽ 2π വിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനാൽ ആ ഉത്തരം ഒന്ന് പരിശോധിക്കുക അതിൽ 2π കൂട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പരിശോധിക്കുക അതിന്റെ ഉത്തരം 56 ഇനി ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ ഫിഗറിൽ കാണിച്ചിട്ടുള്ള സർക്യൂട്ടിൽ R1 0 5 Ω C1 6 microfarad C2 12 microfarad L1 25 mH L2 15 mH എന്നതാണ് അതിനാൽ ഒന്നാമതായി റെസൊണന്സിന്റെ ഫ്രീക്വൻസി നിർണ്ണയിക്കുക രണ്ടാമതായി മൊത്തം സർക്യൂട്ടിന്റെ Q നിർണ്ണയിക്കുക കോയിൽ 1 ന്റെയും കോയിൽ 2 ന്റെയും Q വെവ്വേറെ നിർണ്ണയിക്കുക അപ്പോൾ ഇതാണ് എന്റെ സീരീസ് സര്ക്യൂട്ട് റെസിസ്റ്റൻസ് ഇവിടെ 0 5 Ω ആണ് ഇത് കോയിൽ 1 ആണ് അതിന്റ അതിന്റെ റെസിസ്റ്റൻസ് 0 5 Ω ഇൻഡക്റ്റൻസ് 25 മില്ലി ഹെൻറിയുമാണ് ഈ രണ്ട് കപ്പാസിറ്ററുകളും സീരീസിലുണ്ട് 6 മൈക്രോ ഫാരഡും 12 മൈക്രോ ഫാരഡും ഇതാണ് കോയിൽ 2 അതിന്റെ റസിസ്റ്റൻസ് 1 5 Ω ഇൻഡക്റ്റൻസ് 15 മില്ലി ഹെൻറിയുമാണ് ഇതാണ് ഇവിടെ പ്രോബ്ലം ഇനി ചോദ്യം സർക്യൂട്ടിന്റെ ഇമ്പിടൻസ് കണ്ടെത്താനാണ് ഇത് 25 മില്ലി ഹെൻറിയും ഇത് 15 മില്ലി ഹെൻറിയുമാണ് അപ്പോൾ ടോട്ടൽ ഇക്വലന്റ് L എന്നത് 25 15 40 മില്ലി ഹെൻറിയാണ് മാത്രമല്ല ഈ രണ്ട് കപ്പാസിറ്ററുകളും സീരീസിലാണ് അപ്പോൾ ഇത് 6 126 12 4 മൈക്രോ ഫാരഡ് എന്നായിരിക്കും അതിനാൽ C 6 126 12മൈക്രോ ഫാരഡും നമുക്കറിയാം f012π √LC 12π 40 10 3 4 10 6 എന്നാണ് കാരണം കപ്പാസിറ്റർ 4 മൈക്രോ ഫാരഡ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് f0104 8π ഹേർട്സ് എന്ന് ലഭിക്കും അല്ലെങ്കിൽ ഇത് ω0 2 5 103 rad sec എന്നാവും ഇപ്പോൾ മൊത്തം സർക്യൂട്ടിന്റെ Q എന്നത് Lω0 R എന്നാണ് L നമുക്ക് 40 10 3 എന്ന് ലഭിച്ചിട്ടുണ്ട് ഇത് 2 5 10 3 rad sec എന്നാണ് ഇവിടെ ഇത് 40 എന്നാണ് വരുക ഇത് ഇവിടെ ഇല്ല ഇതെന്റെ ക്ളാസ് നോട്ട് ആണ് അതിലുള്ള ഒരു തിരുത്താണ് ഇത് അപ്പോൾ ഇത് 40 ആണ് മൊത്തം സർക്യൂട്ടിന്റെ Q 40 ആണ് ഇനി കോയിൽ 1 ന്റെ Q എന്നത് L1 ω0 R1 ഈ കൊയിലിൽ ω0 2 5 103 rad sec ആണ് അതിവിടെ നൽകിയിട്ടുണ്ട് L1 യഥാർത്ഥത്തിൽ 25 മില്ലി ഹെൻറിയാണ് അപ്പോൾ ഇവിടെ ഇത് L125 ആണ് 2 5 എന്നല്ല അപ്പോൾ ഇവിടെ ഇതിന്റെ ഉത്തരം 12 5 ആയിരിക്കില്ല അത് ശരിക്കും 125 ആണ് ഇതൊന്നൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഇത് 25 ആണ് ഇത് രണ്ടും വെട്ടിപോവും ഇത് 2 5 ആണ് അതിനാൽ ഉത്തരം 125 ആണ് 5 അല്ല സമാനമായി L2 ω0 എന്നത് L2 15 മില്ലി ഹെൻറി അതായത് 15 10 3 എന്നാവും അത് 2 5 103 R21 5 എന്നാണ് ഇത് കണക്ക് കൂട്ടുകയാണെങ്കിൽ 25 എന്ന് ലഭിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വയം ചെയ്ത് കണക്കുകൾ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക ഇനി ബാൻഡ് വിഡ്ത്ത് BW f0 Q ആണ് ഇതിൽ f0 104 8π Hz എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പോലെ Q 40 എന്നാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10 Hz എന്ന് ലഭിക്കും അപ്പോൾ ഇതാണ് ബാൻഡ് വിഡ്ത്ത് ഇത് 125 അല്ല ഇത് 40 ആണ് അപ്പോൾ ഇത് ഏകദേശം 10 Hz എന്ന് ലഭിക്കും അടുത്തത് മൂന്നാമത്തെ ഉദാഹരണമാണ് ഒരു 5 Ω റെസിസ്റ്ററുള്ള ഒരു കോയിൽ 50 മൈക്രോ ഫാരഡ് ഉള്ള ഒരു കപ്പാസിറ്ററുമായി സീരീസിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് 100 Hz ൽ ഈ സർക്യൂട്ട് റെസൊണേറ്റ് ചെയ്യും അതിനർത്ഥം f0100 Hz ആണ് കൊയിലിന്റെ ഇൻഡക്റ്റൻസ് നിർണ്ണയിക്കുക ഈ സർക്യൂട്ട് ഒരു 200 volt 100 Hz സ്രോതസ്സുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കോയിലിലേക്ക് നൽകപ്പെടുന്ന പവർ നിർണ്ണയിക്കുക കപ്പാസിറ്ററിലും കൊയിലിലും ഉള്ള വോൾട്ടേജ് സർക്യൂട്ടിന്റെ ബാൻഡ് വിഡ്ത്ത് ഈ കാര്യങ്ങളെല്ലാമാണ് കണ്ടത്തേണ്ടത് നിങ്ങൾ ഈ വീഡിയോ ലക്ച്ചർ കാണുമ്പോൾ ആദ്യം ഇത് എഴുതിയെടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടില്ല ഇത് വളരെ എളുപ്പമാണ് അതിനാൽ റെസൊണൻസിൽ ω0 1√L C ആണെന്ന് നമുക്കറിയാം അതിനാൽ 2π f01√L C ഇവിടെ f0 100 Hz നൽകിയിട്ടുണ്ട് അത് പോലെ C 50 മൈക്രോ ഫാരഡ് ആണ് അതായത് 50 10 6 ഫാരഡ് ഇത് L ആണ് അപ്പോൾ L എന്നത് 50 മില്ലി ഹെൻറി ആവും ഇനി റെസൊണൻസിലുള്ള കറണ്ട് VR ആണ് കറണ്ട് ഇവിടെ മാക്സിമം ആണ് അതിനാൽ 2005 40 ആംപിയർ ആണ് ഇനി പവർ ഡിസിപ്പേറ്റഡ് I2 R 402 5 8000 Watts8 KW ഇനി കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് I XC ആണ് ഇവിടെ I 40 ആംപിയർ XC1ω C C50മൈക്രോ ഫാരഡ് ആണ് അതിനാൽ 50 10 6 2π 100 അത് ഏകദേശം 80002π volt 1273 2 volt എന്നാകും ഇതാണ് ശരിയായ മൂല്യം ഇനി കൊയിലിന്റെ ഇമ്പിടൻസ് R j Lω അത് 5 j L എന്നത് 50 10 3 2π 100 അപ്പോൾ ഇത് 5 j 31 4 Ω എന്നാവും ഇനി VLI j ആണ് അപ്പോൾ ഈ 40 ആണ് ഇവിടെ കറണ്ട് ഇതിന്റെ അളവ് 1256 volt ആണ് നമ്മൾ ഇവിടെ അളവ് മാത്രം എടുത്തിട്ടൊള്ളു ഇവിടെ ഇതിന്റെ ആംഗിൾ എഴുതിയിട്ടില്ല അപ്പോൾ ഈ അളവിനെ 40 √ 31 42 കൊണ്ട് ഗുണിക്കുകയാണ് അതിൽ നമുക്ക് കിട്ടുന്നത് 1256 volt ആയിരിക്കും ഇനി കൊയിലിന്റെ Q 31 4 5 എന്നായിരിക്കും കാരണം XL 31 4 എന്നും R 5 എന്നുമാണ് അപ്പോൾ ഇത് 6 3 ആയിരിക്കും ഇത് കൊയിലിന്റെ Q0 ആണ് ഇത് XL ആണ് XL അടിസ്ഥാനപരമായി LωR ആണ് അതിനാൽ Lω എന്നത് 31 4 R എന്നത് 5 ആണ് അതിനാൽ 6 ഇനി ബാൻഡ് വിഡ്ത്ത് f0 Q0 100 6 3 16 Hz ഇനി നാലാമത്തെ ഉദാഹരണമാണ് 05 H C 20 മൈക്രോ ഫാരഡ് എന്നിവയുള്ള ഒരു സീരീസ് സർക്യൂട്ടിൽ അപ്പ്ളൈഡ് വോൾട്ടേജ് ഒരു വേരിയബിൾ ഫ്രീക്വൻസിയോട് കൂടെ V100 ആംഗിൾ 0° volt ആണ് അതിനാൽ ഇവിടെ ഫ്രീക്വൻസി വേരിയബിൾ ആണ് ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഇൻഡക്റ്ററിലുള്ള മാക്സിമം വോൾട്ടേജ് കണ്ടെത്തുക അപ്പോൾ ഇവിടെ Z√R 2 Lω 1ω C 2 ആണ് അതായത് XL XC 2 അതിനാൽ കറണ്ട് I V √R 2 Lω 1 ω C 2 അതിനാൽ L ൽ ഉള്ള വോൾട്ടേജിന്റെ അളവ് VL I Lω അപ്പോൾ അതിനർത്ഥം XL ആക്സിലറേറ് ചെയ്യുന്നുണ്ടെന്നാണ് I XL അതിനാൽ XLLω അപ്പോൾ ഇത് ω L V√R 2 Lω 1 ω C2 അതിനാൽ സമവാക്യം ന്റെ ω ക്ക് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ dVLd ω 0 എന്നാക്കുകയും ω ക്ക് വേണ്ടി സോൾവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ VL മാക്സിമം ആകുമ്പോൾ നമുക്ക് ω യുടെ മൂല്യം ലഭിക്കും അപ്പോൾ അതിനർത്ഥം dVLd ω ഇത് അത് ലഘൂകരിക്കുകയും ½ പവറിലാക്കി എഴുതുകയും ചെയ്യുന്നു ഇവിടെ XL ω 2 വിപുലീകരിച്ചതാണ് എന്നിട്ട് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ½ പവറിലാക്കി എഴുതുന്നു കാരണം ഇത് ω V √ ഇതാണ് അതിനാൽ 1R എന്ന് കിട്ടും എന്നിട്ട് നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കണം ഇതിന്റെ ഡെറിവേറ്റ് എടുത്ത് ലഘൂകരിച്ചാൽ നമുക്ക് ലഭിക്കുക R 2 2 LC 2ω 2 C 20 അതിനർത്ഥം ω 1√L C √22 R 2 CL എന്നാണ് പക്ഷെ നമ്മൾ Q0ω0 LR എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് 1ω0 C R ആണ് അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ Q0 Q0 ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് Q0 2LR 2 C എന്ന് ലഭിക്കും ഇതും നമ്മൾ കണ്ടെത്തിയതാണ് അപ്പോൾ അതിനർത്ഥം ഈ പദത്തിന്റെ റെസിപ്രോക്കൽ അതായത് R 2 CL 1Q02 അപ്പോൾ ഇവിടെ നമ്മൾ 2 1Q02 എന്ന് ചേർക്കുന്നു അപ്പോൾ ഇതെല്ലാം പകരം ചേർത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് ω 1√LC √2 Q02 അതിനാൽ സമവാക്യം കാണിക്കുന്നതനുസരിച്ച് Q ഉയർന്നതാണെങ്കിൽ ഈ ω0 യിൽ L ന് കുറുകെ മാക്സിമം വോൾട്ടേജ് സംഭവിക്കുക ω0 ≅ 1√L C ആവുമ്പോളാണ് Q ഉയർന്നതാണെങ്കിൽ 2 Q02 1 ≅ 2 Q02 എന്നായിരിക്കും അതിനാൽ Q0 ഉയർന്നതാവുമ്പോൾ ഈ പദം ഒന്നാകും അപ്പോൾ ഇത് 1√L C ആവും അപ്പോൾ ഇതിന്റെ ഏകദേശ മൂല്യം 1√L C ആണ് ഇനി Q ഉയർന്നതാണെങ്കിൽ ω0 എന്നതിൽ R ലും C ലും പരമാവധി വോൾട്ടേജ് ലഭിക്കുന്നതാണ് അതായത് റെസൊണൻസ് ഫ്രീക്വൻസി ഇനി Q കുറഞ്ഞതാണെങ്കിൽ VC പരമാവധിയാകുന്നത് ω0 ക്ക് താഴെയും VL പരമാവധിയാകുന്നത് ω0 ക്ക് മേലെയുമാണ് ഇത് നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയ എക്സസൈസ് ആണ് ഇത് നമ്മൾ ഇതിനകം റെസൊണൻസിന് വേണ്ടി ചെയ്തതാണ് ഇനി സമവാക്യം ൽ നിന്ന് ω √22 L C R 2 C 2 ഇതാണ് സമവാക്യം ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും ഇവിടെ C R L എന്നിവയുടെ മൂല്യങ്ങൾ തന്നിട്ടുണ്ട് അതെല്ലാം പകരം ചേർക്കാം അപ്പോൾ നമുക്ക് ω1414 radsec എന്ന് കിട്ടും ഇതാണ് ഉത്തരം നമ്മൾ d VLd ω 0 എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് ഉത്തരം ലഭിക്കുക ഇതിലായിരിക്കും ഇൻഡക്റ്ററിന്റെ വോൾട്ടേജ് മാക്സിമം ഇവിടെ XLLω 70

ഇതെല്ലാം ദയവായി കണക്ക് കൂട്ടുക മാത്രമല്ല Z R j XL XC 61 അതിനാൽ IVZ നമുക്കിതിന്റെ അളവ് 100 ആംഗിൾ 61 635 ആംപിയർ എന്നാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക അതിനാൽ VL I XL അതായത് ഇത് 70 7 ആണ് അപ്പോൾ നമുക്ക് 115 5 volt എന്ന് ലഭിക്കും അപ്പോൾ ഇതാണ് VL ഇനി അഞ്ചാമത്തെ ഉദാഹരണത്തിൽ ഇവിടെ പാരലൽ സർക്യൂട്ട് നൽകിയിട്ടുണ്ട് ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് അതിനാൽ 8 j 6 Ω മാത്രമല്ല ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് ഇത് 8 34 Ω പക്ഷെ ഈ C മാറുന്നുണ്ട് C XC മാറുന്നുണ്ട് നമുക്ക് ω0 5000 radsec ആവുമ്പോൾ റെസൊണൻസിന് കാരണമാകുന്ന C ആണ് കണ്ടത്തേണ്ടത് ഇത് വളരെ എളുപ്പമാണ് കാരണം ω0 ഇവിടെ നൽകിയിട്ടുണ്ട് അതിനാൽ പാരലൽ സർക്യൂട്ടിൽ Y18 j 6 18 34 j XC ആണ് അപ്പോൾ ഇതാണ് Y ഇനി ഇവിടെ ന്യുമറേറ്ററും ഡിനോമിനേറ്ററും 8 j6 കൊണ്ട് ഗുണിക്കുക ഇവിടെയും ന്യുമറേറ്ററും ഡിനോമിനേറ്ററും 8 34 j XC കൊണ്ട് ഗുണിക്കുക എന്നിട്ട് ഇത് ലഘൂകരിക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥ ഭാഗവും ഇത് സാങ്കല്പിക ഭാഗവും ആയിട്ട് കിട്ടും റെസൊണൻസിൽ ഈ സാങ്കൽപ്പിക ഭാഗം 0 ആയിരിക്കും അതിനാൽ ഈ ഭാഗം 0 ആണെങ്കിൽ XC 69 ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് XC യുടെ രണ്ട് മൂല്യങ്ങൾ ലഭിക്കും അതിനാൽ XC8 ഇവിടെ ω0 5000 rad sec എന്നും C 24 മൈക്രോ ഫാരഡ് എന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം ഇനി അടുത്ത സർക്യൂട്ട് എല്ലാ ഫ്രീക്വൻസികളിലും റെസൊണന്റാവുന്നതിന് ഹേതുവാകുന്ന RL ഉം RC ഉം നിർണ്ണയിക്കുക എല്ലാ ഫ്രീക്വൻസികളെന്നും പറയുമ്പോൾ നമ്മൾ മുമ്പേ കണ്ടെത്തിയത് പ്രകാരം 1 √L C √ RL 2 LCRC 2 LC എന്നാണ് ഇനി RL2 RC2 LC ആണെങ്കിൽ ഇത് എല്ലാ ഫ്രീക്വൻസിയിലെയും റെസൊണൻസാണ് കാരണം ഈ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ളത് 00 ആവും അതിനാൽ എല്ലാ ഫ്രീക്വൻസികളിലും റെസൊണൻസുള്ള സർക്യൂട്ട് ഉണ്ടാകും നമുക്ക് കണ്ടത്തേണ്ടത് RL ഉം RC യുമാണ് ഞാൻ ഇവിടെ ഉത്തരം നൽകിയിട്ടില്ല നിങ്ങളിത് ദയവായി ചെയ്യുക നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ ഉത്തരം അറിയിക്കുക അപ്പോൾ ഞാൻ ശരിയുത്തരം പറഞ്ഞു തരാം അപ്പോൾ ഇതോട് കൂടി റെസൊണൻസ് ഭാഗം തീർന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി അങ്ങനെ ഡി സി സർക്യൂട്ടിന്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ കണ്ടു ഇനി നമ്മൾ എ സി സർക്യൂട്ടിന്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറവും കാണും ഡിസി യിൽ നിന്ന് നമ്മൾ ഇതിനകം തുടങ്ങിയത് കാരണം എസി കുറച്ച് മാത്രമേ നോക്കേണ്ടതൊള്ളൂ അപ്പോൾ ഇതാണ് എ സി സർക്യൂട്ടിന്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഇവിടെ മൂന്ന് കേസുകളുണ്ട് ആദ്യത്തെ കേസ് ലോഡ് വേരിയബിൾ റെസിസ്റ്റൻസ് RL ആണ് ഒരു സർക്യൂട്ടിന്റെ വോൾട്ടേജിന്റെ സ്രോതസ്സ് V0 ആണെന്ന് കരുതുക പൊളാരിറ്റി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ് ഈ Zg R g j x g ഇമ്പിടൻസ് നൽകിയിട്ടുണ്ട് കൂടാതെ RL വേരിയബിളാണ് ഡിസി സർക്യൂട്ടിന്റെതാണ് കാരണം ഡിസി സപ്ലൈയിൽ ഇത് R തീവ്നിനും ഇത് V തീവ്നിനുമാണ് ഇവിടെയും ഇത് നൽകിയിട്ടുണ്ടെന്ന് കരുതുക എങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന് RL ന്റെ മൂല്യം എന്തായിരിക്കും കറണ്ടിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ഇത് Vg ആംഗിൾ 0° ആണ് അതിനാൽ കറണ്ട് I Vg ഇത് ഒരുമിച്ച് സീരീസ് ഇമ്പിടൻസ് ആയതിനാൽ R g RL j x g അപ്പോൾ ഇതാണ് എന്റെ കറണ്ടിന്റെ അളവ് ഇനി ഇതാണ് തന്നിട്ടുള്ള ഫേസർ ഇവിടെ നമ്മൾ ആംഗിൾ 0° ചേർക്കുന്നു കാരണം നമ്മൾ Vg ആംഗിൾ 0° ആണ് എന്ന് നേരത്തെ കണ്ടു ഇതൊരു അളവല്ല ഫേസർ ആണ് കാരണം നമ്മൾ j ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ അബ്സൊല്യോട്ട് എടുക്കുന്നു ഇത് Vg √Rg RL2 x g2 ആണ് അപ്പോൾ ഇതാണ് അളവ് RL ലുള്ള പവർ I 2 RL അപ്പോൾ ഇത് Vg 2 RLR g RL 2 x g 2 എന്നാവും ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന് dP dRL 0 ആണ് അതിനെ പൂജ്യമാക്കി സോൾവ് ചെയ്താൽ നമുക്ക് RL2 R g2 x g2 എന്ന് കിട്ടും അതിനാൽ RL√R g2 x g2 |Zg| കാരണം Zg r g j x g എന്നാണ് തന്നിട്ടുള്ളത് അതിനാൽ അതിൻറെ അളവ് Zg √R g2 X g 2 അത് കൊണ്ടാണ് RL |Zg| ആവുന്നത് ഇനി Xg 0 ആണെങ്കിൽ RL Rg ആയിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ തരം സർക്യൂട്ടിന് RL √R g2 j x g2 ആയിരിക്കും പക്ഷെ അത് RLR g ഒരിക്കലും ആവില്ല അത് √R g 2 j x g 2 ആയിരിക്കും അപ്പോൾ ഇതാണ് RL ഇനി കേസ് 2 നോക്കുകയാണെങ്കിൽ ലോഡ് വേരിയബിൾ റെസിസ്റ്റൻസും വേരിയബിൾ റിയാക്റ്റൻസും ഉള്ള ഇമ്പിടൻസ് ZL അപ്പോൾ ഇവിടെയും ഇത് Vg ആംഗിൾ 0° ആണ് ആംഗിൾ ഇവിടെ കാണിച്ചിട്ടില്ല പൊളാരിറ്റി കാണിച്ചിട്ടുണ്ട് ഇനി ഇത് Zg Rg jxg ആണെന്ന് വെക്കുക V തീവ്നിനും j തീവ്നിനും പോലെയാണ് ഇതാണ് കറണ്ട് I കൂടാതെ ഈ ZL വേരിയബിളാണ് RL ഉം XL ഉം വേരിയബിളാണ് അതിവിടെ നൽകിയിട്ടുണ്ട് ഇമ്പിടൻസ് ZL വേരിയബിൾ റെസിസ്റ്റൻസും വേരിയബിൾ റിയാക്റ്റൻസുമാണ് അതിനാൽ നമുക്ക് ഇമ്പിടൻസിന്റെ മൂല്യമാണ് കണ്ടത്തേണ്ടത് ഇനി കറണ്ട് IVg R g RL j X g XL അതിനാൽ I Vg √ Rg 2 RL 2 Xg2 XL2 ഇനി P I 2 RLVg 2 RL Rg RL2 Xg XL2 ഇതാണ് സമവാക്യം 1 ഇവിടെ ഈ സ്ക്വയർ ഇല്ല ഇത് Vg ഇതാണ് ഇനി സമവാക്യം ലെ RL സ്ഥിരമാക്കി വെച്ചാൽ P യുടെ മൂല്യം X g XL ആവുമ്പോൾ മാക്സിമം ആയിരിക്കും അതിനാൽ Xg XL എന്നതിനർത്ഥം X g XL 0 എന്നാണ് അപ്പോൾ ഈ പദം ഇല്ലാതെയായി പോകും അതിനാൽ RL സ്ഥിരമാക്കി വെച്ചാൽ പവറിന്റെ മൂല്യം മാക്സിമം ആയിരിക്കും അപ്പോൾ അവിടെ P മാക്സിമം ആയിരിക്കും കാരണം Xg XL എന്നാൽ Xg XL0 എന്നാവും ഈ പദം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇത് Vg 2 RL R g RL2എന്നായിരിക്കും അപ്പോൾ സമവാക്യം Vg 2 RL Rg RL 2 എന്നാകും ഇത് സമവാക്യം ആണ് ഇനി RL വേരിയബിൾ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ കേസ് 1 ൽ കാണിച്ചത് പോലെ RLRg ആകുമ്പോൾ ലോഡിലേക്ക് പരമാവധി പവർ വിതരണം ചെയ്തിട്ടുണ്ടാകും ആദ്യത്തെ കേസിൽ Xg f0 ആകുമ്പോൾ RLRg ആയിരിക്കും അതിനർത്ഥം ലോഡിലേക്ക് പരമാവധി പവർ വിതരണം ചെയ്തിട്ടുണ്ട് ഇനി RLR g ആണെങ്കിൽ XL X g ആയിരിക്കും അപ്പോൾ ZL RL j XL ഇവിടെയൊരു സർക്യൂട്ടുണ്ടായിരുന്നു അതിൽ ZLRL j XL കൂടാതെ ഇവിടെ XL Xg ചേർക്കുകയാണെങ്കിൽ ZL R g j X g ആവും അപ്പോൾ ZLZg കാരണം യഥാർത്ഥത്തിൽ Zg R g j x g ആണ് അതിനാൽ Zg R g j X g അപ്പോൾ RL ഉം XL ഉം വേരിയബിൾ ആണെങ്കിൽ ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിനുള്ള വ്യവസ്ഥ അതിനാൽ ZLZg അടുത്തത് കേസ് 3 ആണ് ഇവിടെ ZL ഉണ്ട് XL സ്ഥിരമാണ് പക്ഷെ RL വേരിയബിൾ ആണ് ഇതാണ് കേസ് 3 ഇത് രണ്ടും നേരിട്ട് കൂട്ടിയാൽ R g j x g XL നമുക്ക് RL Zg j XL എന്ന് കിട്ടും അപ്പോൾ RL R g j X g XL എന്ന് കിട്ടും ഇത് നിങ്ങൾക്ക് ഒറ്റക്ക് ചെയാവുന്നതാണ് അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പ്രകാരം ഈ RL √Rg 2 Xg XL2 ആയിരിക്കും അപ്പോൾ ഇത് Rg j x g XL ആയിരിക്കും ഇനി ഇതിന്റെ മൂന്ന് നാല് ഉദാഹരണങ്ങൾ നോക്കാം ഫിഗർ 1 ലെ സർക്യൂട്ടിൽ ലോഡ് ZL ൽ ഒരു പ്യുവർ റെസിസ്റ്റൻസ് RL ഉണ്ട് സ്രോതസ്സ് ലോഡിലേക്ക് മാക്സിമം പവർ നൽകുന്ന RL ൻറെ മൂല്യം കണ്ടെത്തുക മാക്സിമം പവർ P യുടെ മൂല്യവും നിർണ്ണയിക്കുക അപ്പോൾ ഇവിടെ സർക്യൂട്ട് തന്നിട്ടുണ്ട് ഇത് 10 Ω ഉം j 20 Ω ഉം ആണ് ഇത് ZL RL എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് RL ആണെന്നാണ് 50 ആംഗിൾ 0° volt ആണ് ഇതിന്റെ സ്രോതസ്സ് നമുക്കറിയാം RL മോഡ് Zg ആണ് അപ്പോൾ ഇത് മോഡ് 10 j 20 4 Ω എന്നാണ് വരുന്നത് അതിനാൽ IVg l Zg RL അപ്പോൾ Zg 102 j 20 RL നമുക്ക് 22 4 ആണെന്ന് കിട്ടി അപ്പോൾ ഇത് 1 31 ആംഗിൾ 31 7° ആംപിയർ എന്നായിരിക്കും അതിനാൽ P I2 R ആയത് കൊണ്ട് 1 31 2 RL 22 4 അപ്പോൾ ഇത് 38 5 Watt എന്ന് കിട്ടും ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ് സമാനമായി രണ്ടാമത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഉദാഹരണം ZLR j XL എന്നത് കൊണ്ട് ആവർത്തിക്കുക RL ഉം XL ഉം വേരിയബിളുകളാണ് അപ്പോൾ Z RL j XL എന്നത് കൂട്ടുമ്പോൾ എല്ലാ കണക്കും അത് പോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുകയെന്നാൽ ഇതിൽ RL ഉം XL ഉം വേരിയബിളുകളാണ് മാത്രമല്ല Zg 10 j 20 ആയതിനാൽ ZLZg ആയിരിക്കും അപ്പോൾ ഇത് 10 j 20 അതിനാൽ ടോട്ടൽ ഇമ്പിടൻസ് ZT Zg ZL ആണ് Zg ഇവിടെ 10 j 20 ഉം ZL 10 j 20 ഉം ആണ് അതിനാൽ j 20 j 20 ഇല്ലാതെയായി പോയി ഇത് 20 Ω എന്നാവും അതിനാൽ I 50 ആംഗിൾ 0° ZT ഇത് 20 ആണ് അപ്പോൾ ഇത് 2 5 ആംഗിൾ 0° ആംപിയറാണ് കൂടാതെ P I 2 R ആണ് I 2 25 2 ഉം ഇത് 10 Ω ഉം ആണ് അപ്പോൾ ഇത് 62 5 Watt ആണ് അപ്പോൾ ഈ വ്യവസ്ഥകൾ ആവർത്തിക്കുന്നു എന്നത് ഓർത്ത് വെക്കുക എല്ലാം വളരെ എളുപ്പമാണ് ഇനി അടുത്തത് ഫിഗർ 2 ൽ കാണിച്ചിട്ടുള്ള സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് Rg 2 Ω നും 55 Ω നും ഇടയിൽ വേരിയബിളാണ് അപ്പോൾ Rg ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണുള്ളത് അപ്പോൾ ടെർമിനൽ AB യിൽ മാക്സിമം പവർ ട്രാൻസ്ഫറിന് ഹേതുവാകുന്ന Rg യുടെ മൂല്യം എന്താണ് അപ്പോൾ ഇതാണ് ടെർമിനൽ A യും ഇതാണ് ടെർമിനൽ B യും ഇതാണ് Rg വേരിയബിൾ RL 10 Ω ആണ് X g 5 Ω ആണ് ഇവിടെ വോൾട്ടേജ് 10 ആംഗിൾ 0° ആണ് ഫിഗർ 3 ൽ കാണിച്ചിട്ടുള്ള നെറ്റ്വർക്കിൽ ടെർമിനൽ AB ക്ക് കുറുകെ ബന്ധിപ്പിച്ചിട്ടുള്ള ലോഡിൽ വേരിയബിൾ റെസിസ്റ്റൻസ് RL ഉം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC യും ഉണ്ട് ക്ഷമിക്കണം ഞാൻ മുമ്പത്തെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല അതിന്റെ ഉത്തരം ഇവിടെ ഞാൻ നൽകിയിട്ടില്ല ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക ഇനി ഇത് നാലാമത്തെ ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ ഫിഗർ 3 ൽ കാണിച്ചിട്ടുള്ള നെറ്റ്വർക്കിൽ ടെർമിനൽ AB ക്ക് കുറുകെ ബന്ധിപ്പിച്ചിട്ടുള്ള ലോഡിൽ വേരിയബിൾ റെസിസ്റ്റൻസ് RL ഉം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC യും ഉണ്ട് അവ 2 Ω നും 8 Ω നും ഇടക്ക് വേരിയബിളാണ് മാക്സിമം പവർ ട്രാൻസ്ഫറിന് ഹേതുവാകുന്ന RL ന്റെയും XC യുടെയും മൂല്യം നിർണ്ണയിക്കുക ലോഡിലേക്ക് വിതരണം ചെയ്തിട്ടുള്ള മാക്സിമം പവർ P കണക്ക് കൂട്ടുക ഇതാണ് പ്രോബ്ലം അത് പോലെ ഇതാണ് സർക്യൂട്ട് ഇത് വോൾട്ടേജ് 50 ആംഗിൾ 45° ആണ് ഇത് 3 Ω ആണ് ഇത് j XC വേരിയബിളും ഇത് RL ഉം ആണ് ഇത് 2 Ω ഉം j10 Ω ഉം ആണ് ഇവ രണ്ടും വേരിയബിളുകളാണ് ഇതാണ് പോയന്റ് A ഇതാണ് പോയന്റ് B ഇതാണ് സർക്യൂട്ട് ഇനി ചോദ്യത്തിൽ ആദ്യം VTH കണ്ടെത്താനാണ് അപ്പോൾ VTH എന്നാൽ നമുക്ക് ആദ്യം ഇത് കളയാം ഇത് ഇവിടെ ഇല്ലെന്ന് വെക്കാം ഇത് കളഞ്ഞതിനു ശേഷം കറണ്ട് I കണ്ടെത്താം അപ്പോൾ കറണ്ട് I 50 ആംഗിൾ 45° 3 2 j 10 ഇതാണ് കറണ്ട് I ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടാണ് ഞാൻ സർക്യൂട്ട് ഇനി വീണ്ടും വരക്കുന്നില്ല അപ്പോൾ ഇത് VAB ആണ് ഇതാണ് VTH കാരണം ഇത് ഓപ്പൺ ആണ് ഇവിടെ ഒന്നുമില്ല അപ്പോൾ ഇത് A യും ഇത് B യും ആണ് അതിനാൽ VAB VTH ഇത് കറണ്ട് I × ഇത് ഇമ്പിടൻസ് 2 0 Ω ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 50 ആംഗിൾ 45° ഇത് 3 5 j 10 അപ്പോൾ ഇത് 5 j 10 2 j 10 2 j 10 ഇതാണ് VTH VTH 45 6 ആംഗിൾ 60 ഇനി ZTH 3 2 j 10 3 2 j 10 അപ്പോൾ ഇതാണ് ZTH ZTH 2 64 j 0 ഇനി ഇക്വലന്റ് സർക്യൂട്ട് VTH 45 6 ആംഗിൾ 60 അത് പോലെ ഇതാണ് ZTH 2 64 j 0 കൂടാതെ RL ഉം വേരിയബിളാണ് XC യും വേരിയബിളാണ് അതിനാൽ മാക്സിമം പവർ ട്രാൻസ്ഫറിന് ZL ZTH ആവണം 72 Ω ആയിരിക്കും പക്ഷെ ഇനി XC എന്നത് 2 Ω നും 8 Ω നും ഇടയിൽ ക്രമീകരിക്കാവുന്നതാണ് അതിനാൽ XC യുടെ ഏറ്റവും അടുത്ത മൂല്യം 2 Ω ആണ് കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചത് 0 72 Ω ആണ് പക്ഷെ XC 2 Ω നും 8 Ω നും ഇടയ്ക്കാണ് വേരിയബിൾ അതിനാൽ ഏറ്റവും അടുത്ത മൂല്യം 2 Ω ആണ് അതിനാൽ XC 2 Ω ആയിട്ടാണ് എടുക്കുന്നത് അതിനാൽ RL | Zg j XC | നമ്മൾ ഇത് ഇതിനകം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് |2 64 j 0 അപ്പോൾ അതിനർത്ഥം RL 2 അതിനാൽ ZT എന്നത് ZTH ZL എന്നാകും ZTH ഈ 2 64 ആണ് j 0 72 ZL എന്നത് 2 93 j 2 ഇവിടെ നമുക്ക് ഒരു മൂല്യം ലഭിക്കും പക്ഷെ ഏറ്റവും അടുത്ത മൂല്യം 2 ആണ് XC 2 ന്റെയും 8 ന്റെയും ഇടയിലാണ് ഇനി I കണക്ക് കൂട്ടുക ZT ഈ മൂല്യമാണ് കിട്ടിയത് I എന്നത് 8 ആംഗിൾ 73 3° ആംപിയർ എന്ന് കിട്ടും അത് പോലെ പവർ 8 2 × 2 93 187 5 watt വളരെയധികം നന്ദി